വൈകാരിക പ്രകടനത്തിൽ സംസ്കാരത്തിൻറെ സ്വാധീനം അനന്തരഫലങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സന്ദർഭത്തിൽ വളരെ രസകരമായ ഒരു പരീക്ഷണത്തെക്കുറിച്ച് നടത്തിയ രസകരമായ ഒരു പരീക്ഷണത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിക്കാൻ പോകുന്നത് വളരെയധികം സമ്മർദ്ദം നിറഞ്ഞ ദൃശ്യങ്ങൾ ഉള്ള ഒരു സിനിമ കാണുന്നതിനായി കുറച്ചുപേരെ നിർദ്ദേശിക്കുന്നു രണ്ടു നിബന്ധനകളാണ് അവരുടെ മുന്നിൽ വയ്ക്കുന്നത് സിനിമ ഒറ്റയ്ക്കിരുന്ന് കാണണം അതുകൂടാതെ പരീക്ഷകന് ഒപ്പം സംഘമായിരുന്നും കാണേണ്ടതാണ് ഒറ്റയ്ക്ക് സിനിമ കാണുന്ന അവസ്ഥയിൽ പ്രേക്ഷകന് ഉണ്ടായ ഭാവപ്രകടനങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു മറ്റൊരാളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുന്ന അവസരത്തിൽ ഉണ്ടായ ഭാവ പ്രകടനങ്ങളും വൈകാരിക പ്രകടനങ്ങളും നിരീക്ഷണ വിധേയമായിരുന്നു സമാന സാംസ്കാരിക അവസ്ഥകൾ പങ്കിടുന്നവരോടൊപ്പം സിനിമ കാണുമ്പോൾ നമ്മുടെ ഭാവങ്ങൾ അത്തരമൊരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പ്രകടിപ്പിക്കപ്പെടുന്നത് എന്നാൽ ഒറ്റയ്ക്ക് സിനിമ കാണുന്ന അവസ്ഥയിൽ അത്തരം സാംസ്കാരിക ഘടകങ്ങൾ വലിയ സ്വാധീനം ഒന്നും വൈകാരിക ഭാവപ്രകടനങ്ങളിൽ സൃഷ്ടിക്കുന്നില്ല ഇവിടെ വളരെ രസകരമായ ഒരു വ്യതിയാനം നിങ്ങൾക്ക് കാണാം സാമൂഹികമായ സുസാധ്യത എന്ന് നമുക്കതിനെ വിളിക്കാം നിങ്ങൾ സമാനമായ സാംസ്കാരിക പശ്ചാത്തലം പങ്കിടുന്ന ഒരു സംഘത്തിൽ ആയിരിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന വികാരങ്ങളും തനിച്ചായിരിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന വൈകാരിക പ്രകടനങ്ങളും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട് ഒരു സാംസ്കാരികമായ കൂട്ടായ്മയിൽ എപ്പോഴും സന്തോഷം ആയിരിക്കും പ്രകടിപ്പിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള പോസിറ്റീവ് വികാരങ്ങളുടെ പ്രകടനത്തെ ആണ് അവർ അംഗീകരിക്കുന്നത് പക്ഷേ തനിച്ചിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷത്തിൽ ഉപരിയായി ദുഃഖകരമായ അവസ്ഥകളും കൂടി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് നമുക്കറിയാം സാംസ്കാരികമായി സമാന പശ്ചാത്തലം പങ്കിടുന്ന ഇന്ന് കൂട്ടായ്മകളിൽ നാം എപ്പോഴും മുഖംമൂടി ധരിക്കാൻ നിർബന്ധിതരാകുന്നു നമ്മുടെ ദുഃഖം ഒന്നുകിൽ മറച്ചുവയ്ക്കുകയും അല്ലെങ്കിൽ സന്തോഷപ്രകടനത്താൽ മൂടി വയ്ക്കുകയോ ചെയ്യാൻ നിർബന്ധിതരാകുന്നു ഉദാഹരണത്തിന് ഭാരതീയ സംസ്കാരം അനുസരിച്ച് രാവിലെ നാം മുന്നിൽ കാണുന്ന വ്യക്തികളോട് സാധാരണയായി ചോദിക്കുന്ന ചോദ്യം ആണ് എങ്ങനെയിരിക്കുന്നു സുഖമാണോ ഇതിന് ഉത്തരം ആയി ഏതൊരു വ്യക്തിയും നൽക്കുന്ന സാധാരണ മറുപടി കുഴപ്പമില്ല അങ്ങനെ പോകുന്നു സുഖമാണ് എന്നൊക്കെയാണ് നമ്മൾ നന്നായിരിക്കുന്നു എന്ന മറുപടിക്ക് പകരം സാധാരണയായി കൊടുക്കുന്നത് കുഴപ്പമില്ല എന്നുള്ള മറുപടിയാണ് എന്നാൽ ഭാരതീയ സംസ്കാരത്തിൽ നിന്നും ഭിന്നമായ സാംസ്കാരിക അവസ്ഥയിലുള്ള രാജ്യങ്ങളിലെ വ്യക്തികൾ കൊടുക്കുന്ന മറുപടി നന്നായിരിക്കുന്നു അത്ര മോശമല്ല തുടങ്ങിയ പോസിറ്റീവ് ആയിട്ടുള്ള മറുപടികളാണ് ഇത്തരം വ്യക്തികളുടെ അവസ്ഥകൾ നമ്മളിൽ പ്രചോദനം ഉണ്ടാക്കുന്നു പക്ഷേ നമുക്ക് ചുറ്റും അത്തരത്തിലുള്ള മറുപടികൾ നാം പൊതുവേ കാണാറില്ല സാംസ്കാരിക അവസ്ഥകളുടെ സ്വാധീനം നിമിത്തമാണ് ഇത്തരം പ്രോത്സാഹജനകമായ മറുപടികൾ നൽകാത്തത് പൊതുഇടങ്ങളിൽ സമൂഹത്തിൻറെ സാന്നിധ്യത്തിൽ ഇതിൽ ദുഃഖം സങ്കടം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ വളരെ തീവ്രത കുറച്ചു മാത്രമേ വ്യക്തികൾ പ്രകടിപ്പിക്കാറുള്ളൂ എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വ്യക്തിഗത സമൂഹത്തിന്റെ കാര്യത്തിൽ ഞാൻ മാറ്റ്സുമോട്ടോയെ ഇവിടെ ഉദ്ധരിക്കുന്നു വ്യക്തിഗത സമൂഹങ്ങൾ വികാരങ്ങളുടെ വിനിമയം കൂടുതൽ അനുവദിച്ചേക്കാമെന്ന് ആണ് മാറ്റ്സുമോട്ടോ പറയുന്നത് കാരണം നെഗറ്റീവ് വികാരങ്ങൾ പ്രകടനവും മനസ്സിലാക്കലും വ്യക്തിസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു സമൂഹത്തിൻറെ ഭാഗമായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഘത്തിൻറെ പരിഷ്കൃതമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പെരുമാറുമ്പോൾ എല്ലാവരും നെഗറ്റീവ് വികാരങ്ങൾ ഒരുപരിധിവരെ തീവ്രത കുറച്ച് മാത്രമാണ് പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ എല്ലാവരും പറയുന്നു എനിക്ക് നല്ല വിശേഷങ്ങൾ ആണ് ഞാൻ നന്നായിരിക്കുന്നു എനിക്ക് സുഖമാണ് എന്നിങ്ങനെ സമൂഹത്തിനുമുന്നിൽ വ്യക്തിപരമായ വൈകാരിക സുസ്ഥിരത പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ഈ മറുപടി നൽകുന്നത് സുപ്രഭാതം എന്തുണ്ട് വിശേഷങ്ങൾ എന്ന് രാവിലെ ആരെങ്കിലും ചോദിക്കുമ്പോൾ സുപ്രഭാതം എനിക്ക് നല്ല വിശേഷങ്ങൾ ഞാൻ സുഖമായിരിക്കുന്നു എന്ന് മറുപടി നൽകുന്നു നാം ഇവിടെ മനശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന കോഴ്സിൻറെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തത് എന്നാൽ വൈകാരിക പ്രകടനങ്ങളുടെ സാംസ്കാരിക അപഗ്രഥനത്തിൻറെ മേഖലകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടതില്ല വൈകാരിക അവസ്ഥകൾ മുഖഭാവത്തിലൂടെ പ്രകടിപ്പിക്കുന്നതിന് ആധാരമായ വസ്തുതകൾ വിശകലനം ചെയ്യുന്ന ന്യൂറോ കൾച്ചറൽ തിയറി ഓഫ് ഇമോഷൻ ആണ് ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് സാംസ്കാരികമായി നാം വ്യത്യസ്ത വൈകാരിക പ്രകടനങ്ങളുടെ ഭാഗമായി മുഖത്ത് വരുന്ന വ്യതിയാനങ്ങളും ആയി ബന്ധപ്പെട്ട് പ്രക്രിയകൾ ഇടത് വലത് ഭാഗങ്ങളിൽ പ്രത്യക്ഷമാകുന്ന ഭാവങ്ങൾ എന്നിവയെ സംബന്ധിക്കുന്ന സവിശേഷതകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് സംജ്ഞകളിൽ ആദ്യത്തേതായ കോൺട്രാ ലാറ്ററൽ മെക്കാനിസം മുൻപ് സംവിധാനത്തെ കുറിച്ചുള്ള പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുന്നതായി ഓർക്കുന്നുണ്ടല്ലോ അവ ഒപ്റ്റിക് ചെയറുകൾ ന്യൂറൽ ഫൈബറുകൾ എന്നിവയുമായി പരസ്പരം വിച്ഛേദിക്കുന്നതായി കാണാം ഇടത് കണ്ണിൽ നിന്ന് വലത്തെ ലാറ്ററൽ ജെനിക്യുലേറ്റ് ന്യൂക്ലിയസിലേക്കും തുടർന്ന് തലച്ചോറിന്റെ വലതുവശത്തേക്കും പോകുന്നു കോൺട്രാ ലാറ്ററൽ മെക്കാനിസം അർത്ഥമാക്കുന്നത് ഇടത് വശത്ത് നിന്ന് വിവരങ്ങൾ തലച്ചോറിന്റെ വലത് അർദ്ധഗോളത്തിലേക്കും വലതുഭാഗത്ത് നിന്ന് തലച്ചോറിന്റെ ഇടത് അർദ്ധഗോളത്തിലേക്കും പോകുന്നു എന്നാണ് വലതുഭാഗത്ത് നിന്ന് വിവരങ്ങൾ വലത് അർദ്ധഗോളത്തിലേക്ക് പോകുന്നു ഇതിനെ ഇപ്സിലാറ്ററൽ എന്ന് വിളിക്കുന്നു മുഖഭാവത്തിന് നിദാനമായി കോൺട്രാ ലാറ്ററൽ ഇപ്സി ലാറ്ററൽ Ipsi lateralനിയന്ത്രണം ഉണ്ട് പക്ഷേ വൈകാരിക പ്രകടനങ്ങളുടെ കാര്യത്തിൽ സാംസ്കാരികമായ അവസ്ഥകൾ നിയന്ത്രണം ചെലുത്തുന്നുണ്ട് മുഖഭാവപ്രകടനങ്ങൾ നിയന്ത്രിക്കുന്ന പേശിവ്യൂഹങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടെങ്കിലും എങ്കിലും ഒരു പരിധിവരെ അത്തരം ഭാവപ്രകടനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സാംസ്കാരിക അവസ്ഥകൾ പങ്കുവഹിക്കുന്നുണ്ട് എന്നാണ് ന്യൂറോ കൾച്ചറൽ സിദ്ധാന്തം സമർത്ഥിക്കുന്നത് ഒരേ സാംസ്കാരിക വംശീയ അവസ്ഥകളിൽ ഉള്ള വ്യക്തികൾ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ സമാനമായിരിക്കും എന്ന് എന്ന് മുൻപ് സൂചിപ്പിച്ച അടിസ്ഥാന വികാരങ്ങളെ ആസ്പദമാക്കി ഉണ്ടായ രസകരമായ ഒരു പഠനം സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ ഒരു പ്രത്യേക സാംസ്കാരിക അവസ്ഥയിൽ ഉൾപ്പെടുന്ന സാംസ്കാരികമായ പ്രത്യേകതകൾ ഉൾപ്പെട്ട ഒരു സംഘത്തിൽ ഉള്ള ആളാണെങ്കിൽ ആ സംഘത്തിൽ ഉള്ളവർക്ക് ഞാൻ പ്രകടിപ്പിക്കുന്ന വികാരം വ്യക്തമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കും എന്നാൽ മറ്റൊരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഉള്ള ഒരാൾക്ക് അത്രയധികം എൻറെ വികാരപ്രകടനങ്ങൾ മനസ്സിലാകണമെന്നില്ല ബെറിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും മുന്നോട്ടുവെച്ച ആശയങ്ങൾ ആയ ഇക്കോകൾച്ചറൽ ഫ്രെയിംവർക്ക് ഈ നിരീക്ഷണങ്ങളും ആയി പൊരുത്തപ്പെടണം എന്നില്ല വികാരത്തിന്റെ മൂന്ന് തരം മുൻകാല സ്വാധീനങ്ങൾ പാരിസ്ഥിതിക സൂചികകൾ സാമൂഹിക രാഷ്ട്രീയ സൂചികകൾ മാനസിക സവിശേഷതകൾ അതായത് വികാരത്തിൻറെ മൂന്നുതരത്തിലുള്ള മുൻകാല സ്വാധീനങ്ങളിൽ പാരിസ്ഥിതിക ഘടകങ്ങളും സാമൂഹിക രാഷ്ട്രീയ ഘടകങ്ങളും മാനസികം ആയിട്ടുള്ള സവിശേഷതകളും ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടുതന്നെ ദൈനംദിനജീവിതത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നാം പ്രകടിപ്പിക്കുന്ന വൈകാരിക പ്രകടനങ്ങൾ തികച്ചും മാനസിക വ്യാപാരത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ് എന്ന നിരീക്ഷണം ശരിയല്ല അത് വികാരപ്രകടനത്തിന്റെ അനുയോജ്യത നിശ്ചയിക്കുന്നത് പാരിസ്ഥിതികമായ സുസ്ഥിരതയും സാമൂഹികമായ വ്യവസ്ഥിതികളെ യും അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരേ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള ഉള്ള വ്യക്തി പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾക്ക് ഒരേ സ്വഭാവമായിരിക്കും എന്നും മറ്റുള്ളവർ അതിനെ ഉൾക്കൊള്ളുന്നതും സമാന രീതിയിലായിരിക്കും എന്നും മാറ്റ്സുമോട്ടോ അദ്ദേഹത്തിൻറെ സിദ്ധാന്തങ്ങളിൽ പറയുന്നു സാംസ്കാരിക അവസ്ഥകൾ വികാരങ്ങളുടെ പ്രകടനത്തിനും സ്വീകരണത്തിനും സംവേദനത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നിരുന്നാലും അത്തരം പ്രകടനങ്ങൾ അവയുടെ തീവ്രത എന്നിവ നിശ്ചയിക്കുന്നതിൽ സാംസ്കാരിക സ്വാധീനം തീർച്ചയായും ഉണ്ട് പ്രകൃതിയിലെ അതിലെ സാംസ്കാരിക അവസ്ഥകളെ സാങ്കേതികവിദ്യയെ തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ ഇത്തരം സാംസ്കാരിക ഘടകങ്ങൾ തന്നെയാണ് നാം എന്ത് തരത്തിലുള്ള ഭാവങ്ങൾ എത്രമാത്രം പ്രകടിപ്പിക്കണംഏത് ഭാവങ്ങൾ പ്രകടിപ്പിക്കരുതെന്ന് നിശ്ചയിക്കുന്നത് ഉദാഹരണത്തിന് ജപ്പാനിലെ ജനങ്ങൾ അവരുടെ നെഗറ്റീവ് വികാരങ്ങൾ ഒരു സ്മൈലി ഉപയോഗിച്ച് മറയ്ക്കുവാൻ ആണ് പലപ്പോഴും ശ്രമിക്കുന്നത് അവർ നെഗറ്റീവ് വികാരങ്ങൾ മറ്റുള്ളവർക്കു മുന്നിൽ പ്രകടിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല ഉദാഹരണത്തിന് അവർ ദുഖിതനായി ഇരിക്കുമ്പോൾ ചിരിക്കുന്ന മുഖമുള്ള ഒരു മാസ്ക് എടുത്ത് ധരിക്കുക ആണ് ചെയ്യുന്നത് എന്നാൽ ഓറിയൻറൽ ഇന്ത്യൻസ് ആകട്ടെ അവർക്ക് വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അതിൻറെ തീവ്രതയിൽ പ്രകടിപ്പിക്കാൻ ആണ് ശ്രമിക്കുന്നത് ഭയം ദേഷ്യം എന്നീ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അവയുടെ തീവ്രത കുറയ്ക്കാൻ നാമാഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ജപ്പാനിലെ ജനങ്ങൾ അവരുടെ വികാരങ്ങളെ ഒരു മുഖംമൂടികൊണ്ട് മറയ് ക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഓറിയൻറൽ ഇന്ത്യൻസ് അവരുടെ വികാരങ്ങൾ ഞങ്ങൾ തീവ്രത ഒട്ടും കുറയ്ക്കാതെ തന്നെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മാറ്റ്സുമോട്ടോ പറഞ്ഞ സാംസ്കാരിക സൂചകങ്ങൾ അടങ്ങുന്ന മാനദണ്ഡമാണ് ഇതിന് പ്രവർത്തിക്കുന്നത് വൈകാരിക ആവിഷ്കാരത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലെങ്കിലും അത് മനസ്സിലാക്കുന്നതിൽ നാമെല്ലാവരും ഒരേപോലെയാണെങ്കിലും അത് അംഗീകരിക്കുമെന്നതിന് ഒരു ഉറപ്പുമില്ല അതുകൊണ്ടുതന്നെ ഇത്തരം വൈകാരിക പ്രകടനങ്ങൾ ബോധപൂർവം സാംസ്കാരികമായ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്വീകരിക്കുന്നത് മനശാസ്ത്രകാരൻമാർ മുഖഭാവങ്ങളുടെ വൈകാരിക പ്രകടനങ്ങളിൽ വിശദീകരിക്കുന്നതിനായി വ്യത്യസ്ത ഘടകങ്ങൾ അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നും നിന്നും വ്യത്യസ്തമായി സാംസ്കാരിക ഘടകങ്ങളെയാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്നത് രസകരമായ കാര്യമാണ് അതുകൊണ്ട് പാശ്ചാത്യ പൌരസ്ത്യ ദേശങ്ങളിൽ ഉള്ള വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ഉള്ള വ്യക്തികളുടെ പ്രകടനങ്ങളും മുഖഭാവങ്ങളും ശ്രദ്ധിക്കുക അത് സാക്ഷരരോ നിരക്ഷരരോ ആയ വ്യക്തികൾ ആയിക്കോട്ടെ അവർ ഒരു ക്യാമറയുടെ മുന്നിൽ ഫോട്ടോ എടുക്കുന്നതിനു വേണ്ടി നിൽക്കുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ടാണ് നിൽക്കുക അവരുടെ ഉള്ളിൽ എത്രമാത്രം ദുഃഖം ഉണ്ടെങ്കിലും ആ പുഞ്ചിരി ആയിരിക്കും അവരുടെ മുഖത്ത് ഉണ്ടാകുന്ന ഭാവം ഇത് യഥാർത്ഥ ജീവിതാവസ്ഥകളിൽ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള ഒരു വൈകാരിക പ്രകടനം ആണ് നിങ്ങൾക്ക് ഇവിടെ പ്രത്യേക ചോദക വ്യതിയാനങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല ഇവിടെ സ്ഥിരം ആയതോ വീഡിയോദൃശ്യം എന്ന നിലയിൽ ചിത്രീകരിച്ചതോ ഫോട്ടോ പോലുള്ളതോ ആയ ദൃശ്യങ്ങൾ ഇല്ല ഇവിടെ ആരംഭത്തിനും അവസാനിക്കുന്നതിന് ഇടയിൽ നിഷ്പക്ഷമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനു മുൻപ് നമ്മുടെ വികാരങ്ങൾ പരമാവധി തീവ്രതയോടെ പ്രകടിപ്പിക്കുന്നു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഉദാസീനമായ ഒരു മുഖഭാവത്തിൽ നിന്നും ഞാൻ സന്തോഷ ഭാവത്തിലേക്ക് പോവുകയും ഫോട്ടോ എടുക്കുന്ന നിമിഷത്തിനു ശേഷം ഞാൻ വീണ്ടും തിരിച്ചെത്തുകയും ചെയ്യുന്നു ഇതിനെ വീഡിയോ ടേപ്പ് ചോദകം എന്നു പറയാം മുഖഭാവത്തെ കുറിച്ചും വൈകാരിക പ്രകടനത്തെ കുറിച്ചും പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരോട് ഇത്തരത്തിൽ ഒരു ഫോട്ടോ കാണിച്ചശേഷം ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി പ്രകടിപ്പിക്കുന്ന മുഖഭാവം അഥവാ വികാരം ഏതാണെന്ന് ചോദിച്ചാൽ അവർ ഉത്തരം നൽകുക അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ ആ വികാരത്തെ അടയാളപ്പെടുത്തുന്നു നിങ്ങളുടെ നിങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമാണ് രണ്ടാമതായി ആയി കാണുന്നത് വ്യത്യസ്ത മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന വ്യത്യസ്ത വ്യക്തികളുടെ ചിത്രങ്ങൾ നൽകുകയും അതിൽ നിങ്ങളുടെ ഭാവവുമായി ചേർന്നുനിൽക്കുന്ന ചിത്രം തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ അടിസ്ഥാനപരമായി ആയി ഏറ്റവുമധികം പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു വ്യക്തികളുടെ വൈകാരികഭാവപ്രകടനങ്ങളെ കുറിച്ചും ആവിഷ്കാരത്തെ കുറിച്ചും പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാനുഷിക ഭാവങ്ങളെലെല്ലാം കണക്കിലെടുത്തിട്ടുണ്ട് മുഖത്തിൻറെ ഇരുവശങ്ങളും ഒരേപോലെ ഭാവം പ്രകടിപ്പിക്കുന്നില്ല എന്ന്പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മുഖത്തിൻറെ ഏതെങ്കിലും ഒരു വശത്ത് മാത്രമാണ് ഭാവങ്ങൾ തീവ്രമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് ഇടതുവശം ആണെന്ന് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് വൈകാരിക ഭാവങ്ങളുടെ പ്രകടനത്തിൽ വലതുവശവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇടതുവശമാണ് താരതമ്യേന തീവ്രമായി വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് കാണാം വികാരങ്ങളുടെ വ്യക്തിപരമായ പ്രകടനവും സാമൂഹികമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഉള്ള പ്രകടനവും ചർച്ച ചെയ്യേണ്ടതാണ് വൈകാരികപ്രകടനത്തിൽ മുഖത്തിന്റെ ഒരുവശം സാമൂഹികമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു എങ്കിൽ മറുവശം വൈയക്തികമായ മാനദണ്ഡങ്ങൾ ആയിരിക്കും സ്വീകരിക്കുന്നത് സാമൂഹികമായ സൂചനകൾ അവ മുഖത്തിന്റെ വലതുഭാഗത്ത് ആയിരിക്കും കൂടുതൽ വ്യക്തമാകുന്നത് മുഖത്തിന്റെ ഇടതുവശത്ത് വ്യക്തിഗത വികാരം കൂടുതൽ പ്രകടമാകുന്നു ഞാൻ ആന്തരികമായി മനസ്സ് കൊണ്ട് വളരെയധികം സന്തോഷവാനാണെങ്കിൽ എന്റെ മുഖത്തിൻറെ ഇടതുവശം വലതുവശവും ആയി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്നതായി കാണാം മറ്റൊരു ഉദാഹരണമെടുക്കാം നിങ്ങൾ ഒരു ഇടനാഴിയിലൂടെ നടന്നു പോകുമ്പോൾ ചില സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നു സ്വാഭാവികമായും നമ്മുടെ സാംസ്കാരിക പരിസ്ഥിതികളിൽ നിങ്ങൾ എങ്ങനെയുണ്ട് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും എന്നാൽ സുപ്രഭാതം നിങ്ങളെ കണ്ടതിൽ സന്തോഷം ഉണ്ട് എന്നിങ്ങനെ വളരെ ഔപചാരികമായി പറയുന്ന വ്യക്തികളെയാണ്നാം കണ്ടുമുട്ടുന്നത് എങ്കിൽ അത്തരം വ്യക്തികൾ നിങ്ങളിൽ വലിയ വൈകാരിക മാറ്റങ്ങൾ ഒന്നും ഉണ്ടാക്കുന്നില്ല അവരെ കണ്ടുമുട്ടിയതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും സന്തോഷം ഇല്ലെന്നും മേൽ ചോദ്യങ്ങളുംഉത്തരങ്ങളും സൂചിപ്പിക്കുന്നില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷവാൻ ആണെങ്കിൽ അല്ല നിങ്ങൾക്ക് സന്തോഷം ഇല്ല എന്നുണ്ടെങ്കിൽ മുഖത്തിന്റെ രണ്ടു വശങ്ങളിലും കൃത്യമായി അത് പ്രതിഫലിക്കും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രണ്ടു ഭാവപ്രകടനങ്ങൾ ശ്രദ്ധിക്കുക സന്തോഷം ഭയം എന്നീ വികാരങ്ങൾ ആവിഷ്കരിക്കുന്ന ചിത്രങ്ങളാണ് ഇവ എന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കുന്നു മുഖത്തിന്റെ രണ്ടു വശങ്ങളും തുല്യമായി വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഇവിടെ നൽകിയിട്ടുള്ള സ്ത്രീയുടെ ചിത്രത്തിലേക്ക് നോക്കുക അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ മുഖത്തിന്റെ ഇരുവശങ്ങളും ഒരേപോലെയല്ല ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്നത് മനസ്സിലാക്കാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതാണ് ആണ് മുകളിൽ കണ്ട ചിത്രം ഞാൻ ഈ ചിത്രത്തിലെ മുഖത്തിലെ വലതുവശം ആദ്യം മായ്ച്ചു ഇത് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിനു സമാ നമാണ് എന്നിട്ട് മുഖത്തിന് ഇടതു വശവും ഇടതുവശത്തിന്റെ പ്രതിബിംബവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു വലതു വശവും വലതുവശത്തെ പ്രതിബിംബവും ഇടതു വശവും ഇടതുപക്ഷത്തിന് പ്രതിബിംബം തമ്മിൽ യോജിപ്പിച്ചു അതാണ് മേൽ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇടതു വശവും ഇടതു വശവും വലതു വശവും വലതു വശവും തമ്മിൽ കൂട്ടിച്ചേർത്ത ചിത്രങ്ങളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യതിയാനം ദൃശ്യമാണ് ഒരു ഫോട്ടോയിലെ തന്നെ വ്യക്തിയുടെ മുഖത്തിൻറെ വിവിധവശങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഇരുവശങ്ങളിലുമുള്ള ഭാവപ്രകടനങ്ങളിൽ തീവ്രതയിലും വ്യത്യാസമുണ്ട് ഇതു തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം അതായത് മുഖത്തെ രണ്ടു വശങ്ങളുംവ്യത്യസ്ത നിലവാരത്തിൽ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത് വൈകാരിക ഭാവങ്ങളുടെ ആവിഷ്കാരത്തിൽ ഇതിൽ മുഖത്തിൻറെ പ്രാധാന്യം മനസ്സിലായിക്കാണുമല്ലോ 1980 ൽ ബക്ക് ഫേഷ്യൽ ഫീഡ്ബാക്ക് സിദ്ധാന്തത്തിന് ആവശ്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പ്രധാനമായും അദ്ദേഹത്തിൻറെ പരികൽപനകൾ ഊന്നിയത് മുഖഭാവങ്ങളുടെ ആവിഷ്കാരത്തിൽ മുഖത്തെ പേശിവ്യൂഹങ്ങളുടെ പ്രസക്തിയിലാണ് അവ ആത്മനിഷ്ഠമായ അനുഭവങ്ങളുടെ ആവിഷ്കാരത്തിൽ മുഖത്തെ പേശികൾ ഒരു പ്രധാന പങ്കു വഹിക്കുന്നുണ്ട് അവയിലൂടെ ലഭിക്കുന്ന പ്രതിപുഷ്ടി ഏറെ സഹായിക്കും വൈകാരിക അനുഭവങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ ഏറെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ മുഖഭാവങ്ങൾക്ക് അടിസ്ഥാനമായ പേശികളിലേക്ക് വന്നിരിക്കുന്നു അതിനാൽ അടുത്ത പ്രഭാഷണം മുഖഭാവങ്ങൾക്കും ഭാവ ആവിഷ്കാരത്തിനും നിദാനമായ പേശീവിശകലനത്തെക്കുറിച്ച് മാത്രമായിരിക്കും